വിവിധതരം ജ്യാമിതികൾക്കായുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ നമ്മൾ പരിശോധിക്കുകയാണ് അവസാന ക്ലാസ്സിൽ ഇനിഫിനിറ്റ് സ്ട്രിപ്പിൽ തുല്യ അകലത്തിലുള്ള കോളിനിയർ ക്രാക്കുകളുടെ പ്രശ്നം നമ്മൾ പരിശോധിച്ചു ഞാൻ പറഞ്ഞു ഒരു അക്കാദമിക് കാഴ്ചപ്പാടിൽ ഇത് ഒരു സാങ്കൽപ്പിക പ്രശ്നത്തിന്റെ സ്ട്രെസ് ഫംഗ്ഷൻ എഴുതുന്നതിന്റെ വിപുലീകരണമായി കാണപ്പെടും എന്നിരുന്നാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഉപയോഗിക്കുകയായിരുന്നുസെന്റർ ക്രാക്കഡ് ടെൻഷൻ സ്പെസിമെൻ എന്നിവയ്ക്കുള്ള സൊല്യൂഷൻ ഇവിടെ കട്ട് ചെയ്തു നമുക്ക് നിർമ്മിക്കാൻ കഴിയും നിങ്ങൾ ഇത് y ആക്സിസിലും അതിനിടയിലും മുറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ എഡ്ജ് നോച്ച്ഡ് സ്പെസിമെൻ ലഭിക്കും നിങ്ങൾ ഇവിടെ y ആക്സിസിലും ഇവിടെ y ആക്സിസിലും മുറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ എഡ്ജ്ഡ് ക്രാക്കിന്റെ മാതൃക ലഭിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളിലൊന്ന് ഒരു സെന്റർ ക്രാക്ക് മാതൃകയും സിംഗിൾ എഡ്ജ് നോച്ച് മാതൃകയും തമ്മിലുള്ള താരതമ്യം ആണ് സിമെട്രി കാരണം ഒരു സെന്റർ ക്രാക്ക് മാതൃകയുടെ കാര്യത്തിൽ ഇവിടെ തിരശ്ചീനമായി തുടരാൻ നിങ്ങൾക്ക് ചരിവ് ആവശ്യമാണ് മറുവശത്ത് ഞാൻ ഇത് മുറിക്കുമ്പോൾ ഇതിൽ ഒരു നിയന്ത്രണവുമില്ല ഇത് കണക്കിലെടുക്കുമ്പോൾ ക്രാക്ക് കൂടുതൽ തുറക്കും ഇത് 0 ഡിഗ്രിയിൽ ആയിരിക്കണമെന്നില്ല ചരിവ് 0 ഡിഗ്രിയിൽ ഉണ്ടാകില്ല ഒപ്പം ഇതിന്റെ അർത്ഥമെന്താണ് അത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ഉയർന്ന മൂല്യം ഉണ്ടായിരിക്കുമെന്നതാണ് ഇതിന്റെ സൂചന ക്രാക്ക് ടിപ്പുമായി ബന്ധപ്പെട്ട് ഇത് ബാക്ക് ഫ്രീ സർഫേസ് ആയി ലേബൽ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് പ്രധാനമായും 1 1215 എന്ന ഘടകം ഉണ്ടാകും മിക്കപ്പോഴും ആളുകൾ ഇത് 1 12 ആയി ഉപയോഗിക്കുന്നു ഇത് ബാക്ക് ഫ്രീ സർഫേസ് കറക്ഷൻ ഫാക്ടർ എന്നറിയപ്പെടുന്നു ഇത്തരത്തിലുള്ള ഒരു ആശയം നിങ്ങൾ കാണും സർഫേസ് ക്രാക്കുകൾ കൂടുതൽ യാഥാർത്ഥ്യമാകുന്നതിനാൽ തിക്നെസ്സ് ക്രാക്കുകളിൽ നിന്ന് സർഫേസ് ക്രാക്കുകളിലേക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം തിക്നെസ്സ് ക്രാക്കിലൂടെ നമ്മൾ ആശയങ്ങൾ പഠിച്ചു തുടർന്ന് നമ്മൾ അവ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവസാന ക്ലാസ്സിൽ നോക്കൂ സെന്റർ ക്രാക്ക്ഡ് സ്പെസിമെൻസിനായുള്ള സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറും സിംഗിൾ എഡ്ജ് നോച്ച്ഡ് സ്പെസിമെനും നമ്മൾ പരിശോധിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് ഡബിൾ എഡ്ജ് ക്രാക്കിനുള്ള സൊല്യൂഷൻ ഉണ്ട് ഇതൊരു ഫൈനൈറ്റ് മാതൃകയാണ് ഇവിടെ വീണ്ടും നിങ്ങൾക്ക് KI സിഗ്മ റൂട്ട് പൈ എ ഇന്റു FI ഫംഗ്ഷൻ ആണ് കൂടാതെ നിരവധി ആളുകൾ എഫ് ഫംഗ്ഷൻ നൽകിയതായി നിങ്ങൾ കണ്ടെത്തും ബെന്തേം കൊയ്റ്റർ എന്നിവർ FI ഫംഗ്ഷനെ 1 പ്ലസ് 0 122 കോസ് സ്ക്വയേർഡ് പൈ ആൽഫ ഡിവൈഡഡ് ബൈ 2 ഹോൾ ഇന്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 ബൈ പൈ ആൽഫ ടാൻ പൈ ആൽഫ ഡിവൈഡഡ് ബൈ 2 എന്ന് കാണിച്ചു ആൽഫ 2a ബൈ w ആണ് ആൽഫയുടെ ഏതെങ്കിലും മൂല്യത്തിന് കൃത്യത പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 8 ശതമാനമായി ഇടുന്നു ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഞാൻ ഇനിഫിനിറ്റ് ജ്യാമിതിയിൽ നിന്ന് ഫൈനൈറ്റ് ആയ ജ്യാമിതിയിലേക്ക് പോകുമ്പോൾ സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ വർദ്ധിക്കുന്നത് പോലെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകവും വർദ്ധിക്കുന്നു ഫൈനൈറ്റ് ആയ ജ്യാമിതികൾക്കായി നിങ്ങൾ SIF കണ്ടെത്തേണ്ടതിന്റെ കാരണം അതാണ് അത് ഇനിഫിനിറ്റ് ജ്യാമിതിയിൽ ഉള്ളതിനേക്കാൾ കുറവാണെങ്കിൽ അപ്പർ ബൌണ്ട് സൊല്യൂഷൻ ആയി ആളുകൾ കണക്കുകൂട്ടൽ നടത്തുകയും തുടർന്ന് അത് ഉപയോഗിക്കുകയും ചെയ്യും ഫൈനൈറ്റ് ആയ ജ്യാമിതിയിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ വർദ്ധിക്കുന്നതിനാൽ നിങ്ങൾ ഇത് അനിവാര്യമായും വിലയിരുത്തേണ്ടതുണ്ട് പ്രശ്നം സങ്കീർണ്ണമായതിനാൽ നിങ്ങൾക്ക് ഒന്നിലധികം സൊല്യൂഷൻ ഉണ്ടാകും ബെന്തേം കൊയ്റ്റർ എന്നിവർ നൽകിയ ഘടകം നിങ്ങൾക്കുണ്ട് നിഷിതാനി നൽകിയ മറ്റൊരു കൂട്ടം എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഉണ്ട് FI ഫംഗ്ഷൻ കുറച്ചുകൂടി വിശദമാണ് കൃത്യത പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് പ്ലസ് അല്ലെങ്കിൽ മൈനസ് പോയിന്റ് അഞ്ച് ശതമാനമായി മെച്ചപ്പെട്ടുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു FI ഫംഗ്ഷൻ 1 122 മൈനസ് 0 154 ആൽഫ പ്ലസ് 0 807 ആൽഫ സ്ക്വയേർഡ് മൈനസ് 1 894 ആൽഫ ക്യൂബ് പ്ലസ് 2 494 ആൽഫ പവർ 4 എന്നിങ്ങനെ നൽകിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ തയ്യാറാണ് ഒന്നിലധികം ക്രാക്കുകളിൽ ഉള്ള ക്ലാസ് പരീക്ഷണങ്ങൾ കോഴ്സിന്റെ തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 10മത്തെ ക്ലാസുകളിൽ എവിടെയോ നമ്മൾ ഒരു സെന്റർ ക്രാക്കിന്റെയും ഡബിൾ എഡ്ജ് ക്രാക്കിന്റെയും പ്രശ്നം ചെയ്തു ഏത് ക്രാക്ക് ആണ് കൂടുതൽ നിർണായകമെന്ന് നമ്മൾ ചോദ്യം ചെയ്യുകയായിരുന്നു അക്കാലത്ത് നിങ്ങൾ SIF കണക്കുകൂട്ടുന്നതിൽ നിപുണരായിരുന്നില്ല അതിനാൽ നമ്മൾ ഒരു പരീക്ഷണ ഫലം മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് ഫ്രാക്ച്ചർ ഡബിൾ എഡ്ജ് ക്രാക്കിൽ ആരംഭിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് സമവാക്യങ്ങൾ ഉണ്ട് കാൽകുലേറ്റർ കൊണ്ടുവരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആ പ്രശ്നത്തിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു സെന്റർ ക്രാക്കിന് SIF ന്റെ മൂല്യം വിലയിരുത്തുക കൂടാതെ സെന്റർ ക്രാക്ക് 18 മില്ലിമീറ്ററാണെന്നും ഡബിൾ എഡ്ജ് ക്രാക്ക് 8 5 മില്ലിമീറ്ററാണ് ഡബിൾ എഡ്ജ് ക്രാക്ക് സമ്മേഷൻ സെന്റർ ക്രാക്കിനേക്കാൾ ചെറുതാണ് അതിനാൽ ഇതാണ് പ്രശ്നം എനിക്ക് സെന്റർ ക്രാക്ക് ഉണ്ട് എനിക്ക് ഡബിൾ എഡ്ജ് ക്രാക്ക് ഉണ്ട് ഏത് ക്രാക്ക് ആണ് നിർണായകമെന്നാണ് ചോദ്യം സാമാന്യബുദ്ധി പരാജയപ്പെടുമ്പോൾ നിങ്ങൾ ശാസ്ത്രത്തെ ആശ്രയിക്കേണ്ടതുണ്ട് നിങ്ങൾ ഗണിതശാസ്ത്രം വികസിപ്പിക്കണം ഗണിതശാസ്ത്രം ഉള്ളതിനാൽ നിങ്ങൾക്ക് കണക്കുകൂട്ടൽ നടത്താൻ കഴിയും നിങ്ങൾ കണക്കുകൂട്ടൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എക്സ്പെരിമെന്റൽ നിരീക്ഷണം നിങ്ങളുടെ അനാലിറ്റിക്കൽ കണക്കുകൂട്ടലുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് കാണാൻ നമ്മളെ അനുവദിക്കുന്നു നമ്മൾ എന്തുചെയ്യും എന്നതാണ് നോക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ച എല്ലാ സൂത്രവാക്യങ്ങളുടെയും പാരാമീറ്ററുകൾ വിലയിരുത്താൻ നമ്മൾ ശ്രമിക്കും നിങ്ങൾ ഉന്നത പഠനത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ലളിതമായ ഒരു സമവാക്യം ഉണ്ടാകില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒന്നിലധികം സമവാക്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിവരും കാരണം പ്രശ്നങ്ങൾ വളരെ സങ്കീർണ്ണമാണ് ഇർവിന്റെ ടാൻജെന്റ് ഫോർമുല ഒരു ഏകദേശ കണക്ക് മാത്രമാണെന്ന് നമുക്കറിയാം നിങ്ങൾക്ക് കണക്കുകൂട്ടലിന് ആവശ്യമായ പാരാമീറ്ററുകൾ a ഉം w ഉം ഇവ ലഭ്യമാണ് നിങ്ങൾ പ്രസക്തമായ അളവുകൾ മാറ്റിസ്ഥാപിക്കുമ്പോൾ എനിക്ക് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ KI 0 1781 സിഗ്മ എംപിഎ റൂട്ട് മീറ്റർ എന്ന് പ്രകടിപ്പിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ കാണേണ്ടത് മറ്റ് ഫോർമുലകളുടെ ഫലങ്ങൾ നേടാനും ഡബിൾ എഡ്ജ് ക്രാക്കുമായി താരതമ്യം ചെയ്യാനും പോകുന്ന വഴി എന്താണ് എന്നാണ് ഇപ്പോൾ ഞാൻ ഫെഡ്ഡേഴ്സന്റെ ഫോർമുലയിലേക്ക് പോകട്ടെ അത് വളരെ പ്രസിദ്ധമായ സീക്കന്റ് ഫോർമുലയാണ് അത് സിഗ്മ റൂട്ട് പൈ എ ഇന്റു സീക്കന്റ് പൈ a ബൈ w ആണ് ഹ്യൂറിസ്റ്റിക് വാദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു എംപിരിക്കൽ ബന്ധമാണിതെന്നും നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് KI യുടെ മൂല്യം 0 1830 സിഗ്മ MPa റൂട്ട് മീറ്റർ എന്ന് നൽകുന്നു അതിനാൽ ഇത് ടാൻജെന്റ് ഫോർമുലയേക്കാൾ അല്പം ഉയർന്ന മൂല്യം നൽകുന്നു മികച്ച കൃത്യത നൽകുന്ന ടാഡയുടെ സൂത്രവാക്യംTadas formula കൂടി നമ്മൾ കണ്ടു ടാഡയുടെ ഫോർമുലയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഫലം എന്താണ് ആൽഫയെ 2 a ബൈ w എന്ന് എടുക്കണം നിങ്ങൾക്ക് അത് 0 36 ആയി കിട്ടും സമവാക്യം ഇതുപോലെയാണ് സിഗ്മ റൂട്ട് പൈ എ ഇന്റു 1 മൈനസ് 0 025 ആൽഫ സ്ക്വയർ പ്ലസ് 0 06 ആൽഫ പവർ നാല് ഹോൾ ഇന്റു സീക്കന്റ് പൈ എ ഡിവൈഡഡ് ബൈ w ഈ പ്രസക്തമായ അളവുകൾ ഞാൻ മാറ്റിസ്ഥാപിക്കുമ്പോൾ ഫലം 0 1678 സിഗ്മ എംപിഎ റൂട്ട് മീറ്റർ എന്ന് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉള്ളത് സെന്റർ ക്രാക്കിന്റെ കാര്യത്തിൽ നമുക്ക് മൂന്ന് ഫോർമുലകൾ ഉണ്ടായിരുന്നു ഓരോരുത്തരും വ്യത്യസ്ത മൂല്യങ്ങൾ മാത്രം നൽകി അവർ ഒരു യൂണീക് മൂല്യം നൽകുന്നില്ല നമുക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന മൂല്യം 0 183 ആണ് അത് ഫെഡേഴ്സന്റെ ഫോർമുലയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഏത് വഴിയാണ് ഡബിൾ എഡ്ജ് ക്രാക്കിനായി കണക്കുകൂട്ടലുകൾ ചെയ്യുന്നത് എന്നാണ് അതിനാൽ ഡബിൾ എഡ്ജ് ക്രാക്കിൽ നിങ്ങൾക്ക് എ 8 5 മില്ലിമീറ്ററിന് തുല്യമാണ് w 50 മില്ലിമീറ്ററിന് തുല്യമാണ് അടുത്തിടെ കണ്ട ബെന്തേം കൊയിറ്റർ എന്നിവരുടെ എക്സ്പ്രഷൻ നിങ്ങൾക്കുണ്ട് ക്രാക്കിന്റെ നീളം വ്യത്യസ്തമായതിനാൽ ആൽഫയുടെ മൂല്യം 0 34 ആണ് സെന്റർ ക്രാക്കിനായി നമ്മൾ ഉപയോഗിച്ച മൂല്യം 0 36 എടുക്കരുത് നിങ്ങൾ ആൽഫയുടെ പ്രസക്തമായ മൂല്യം മാത്രം മാറ്റിസ്ഥാപിക്കണം ഒപ്പം ഞാൻ ലളിതവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് KI യുടെ മൂല്യം 0 1875 സിഗ്മ എംപിഎ റൂട്ട് മീറ്ററായി ലഭിക്കുന്നു ഇത് തീർച്ചയായും സെന്റർ ക്രാക്കിനായി നമുക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന മൂല്യത്തേക്കാൾ കൂടുതലാണ് ഇതിലും നമ്മൾ രണ്ട് സൂത്രവാക്യങ്ങൾ കണ്ടു നിഷിതാനിയുടെ ഒരു ഫോർമുല കൂടി നമ്മൾ കണ്ടു നിഷിതാനി ഏത് വിധത്തിലാണ് ഫലം നൽകുന്നത് എന്നും നാം നോക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു അന്തിമ നിഗമനത്തിലെത്തുക അതിനാൽ നിഷിതാനിയുടെ ഫലം ഇതുപോലെയാണ് നിങ്ങൾ ഇപ്പോൾ ഫോർമുല കണ്ടു കണക്കുകൂട്ടൽ കുറച്ച് ദൈർഘ്യമേറിയതാണ് എന്റെ സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് അന്തിമഫലം എഴുതാനും നിങ്ങളുടെ റൂമുകളിൽ പോയി ഈ കണക്കുകൂട്ടൽ പരിശോധിക്കാനും കഴിയുമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഇവിടെ ലഭിക്കുന്നത് KI 0 1833 സിഗ്മ എംപിഎ റൂട്ട് മീറ്ററിന് തുല്യമാണ് അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് ഡബിൾ എഡ്ജ് ക്രാക്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും കുറഞ്ഞ മൂല്യം സെന്റർ ക്രാക്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന മൂല്യത്തേക്കാൾ കൂടുതലാണ് എന്നതാണ് എന്നാൽ അവ വളരെ അടുത്താണ് നിങ്ങൾക്കറിയാമോ അതാണ് കാരണം നിങ്ങളിൽ ചിലർ ഈ മാതൃക നന്നായി ഉണ്ടാക്കി നിങ്ങൾക്ക് ഡബിൾ എഡ്ജ് ക്രാക്കിൽ ഫ്രാക്ച്ചർ ഉണ്ടായി മറ്റുള്ളവർ ക്രാക്ക് ടിപ്പ് നിർമ്മിക്കുന്നതിന് അത്രയധികം മുൻകരുതൽ നൽകിയില്ല അവർക്ക് സെന്റർ ക്രാക്ക് പരാജയപ്പെട്ടു SIF ന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിൽ ക്രാക്കിന്റെ ക്രമീകരണവും പ്രധാനമാണ് എന്നതാണ് ഇവിടെയുള്ള ആശയം നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു അറിവ് നമ്മുടെ എല്ലാ ചർച്ചകളിലും നിർണായക ക്രാക്കിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് SIF by method of superposition സൂപ്പർപോസിഷന്റെ തത്വം ഉപയോഗിച്ച് SIF മൂല്യനിർണ്ണയത്തിന് മറ്റൊരു സമീപനം നമ്മൾ സ്വീകരിക്കും നിങ്ങൾ ഓർമിക്കേണ്ടതുണ്ട് സൂപ്പർപോസിഷന്റെ തത്വം ബാധകമാണ് കാരണം ഞാൻ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഡൊമെയ്നിലാണ് തന്നിരിക്കുന്ന ലോഡിംഗിനെ SIF അറിയാവുന്ന ലളിതമായ ലോഡിംഗുകളായി വിഭജിക്കാൻ കഴിയുമെങ്കിൽ യഥാർത്ഥ ലോഡിംഗിനായുള്ള SIF ലളിതമായ ലോഡിംഗുകളുടെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറുകളുടെ ആകെത്തുകയാണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സ്ട്രെസ് ഫീൽഡ് നിർണ്ണയിക്കുന്നത് നിങ്ങൾ കണ്ട ഏത് ഫംഗ്ഷൻ ആയിക്കൊള്ളട്ടെ r തീറ്റ എന്നിവയുടെ ഫങ്ഷൻ ആണ് അത് എല്ലാത്തിലും സമാനമാണ് സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകമാണ് ശക്തി നിയന്ത്രിക്കുന്നത് എനിക്ക് ഒന്നിലധികം ലോഡിംഗുകൾ ഉണ്ടെന്ന് കരുതുക അവ ഓരോന്നും ക്രാക്ക് ഫെയ്സുകളിൽ മോഡ് I ടൈപ്പ് ലോഡിങ് നൽകുന്നു ക്രാക്ക് മുഖങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ചേർക്കാൻ കഴിയും അതാണ് നമ്മൾ സൂപ്പർപോസിഷന്റെ തത്വത്തിൽ ചെയ്യാൻ പോകുന്നത് തന്നിരിക്കുന്ന പ്രശ്നത്തെ ലളിതമായ പ്രശ്നങ്ങളുടെ ആകെത്തുകയായി കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നിവ ചെയ്യുക അവിടെയാണ് വെല്ലുവിളി ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും കാരണം ക്രാക്കിന്റെ സമീപസ്ഥലത്തെ സ്ട്രെസ് ഘടകം ലളിതമായ ലോഡിംഗുകൾ കൊണ്ടുള്ള സ്ട്രെസ് ഘടകങ്ങളുടെ ലീനിയർ സം ആണ് അതാണ് പോയിന്റ് നമ്പർ വൺ കൂടാതെ സ്ട്രെസ് ഡിസ്ട്രിബൂഷനിൽ മാറ്റമില്ല സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറിന്റെ വ്യാപ്തിയാൽ അതിന്റെ മൂല്യം മാത്രമേ മാറു ഇക്കാരണത്താൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ഒരുപക്ഷേ ചേർക്കാനോ കുറയ്ക്കാനോ കഴിയുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഓർക്കുക ഞാൻ ഒരു പ്രത്യേക തരം ലോഡിംഗ് മാത്രമാണ് നോക്കുന്നത് ഞാൻ മോഡ് I ലോഡ് ചെയ്യുകയാണെങ്കിൽ മോഡ് I ലോഡ് തന്നെ മോഡ് II ലോഡിംഗിനായി ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവ കൂട്ടിച്ചേർക്കാം എനിക്ക് മോഡ് I മോഡ് II എന്നിവ ഒരുമിച്ച് ചേർക്കാൻ കഴിയില്ല അത് അനുവദനീയമല്ല ഞാൻ എനർജി അപ്പ്രോച് നടത്തുകയാണെങ്കിൽ എനർജി കൂട്ടി ചേർക്കാൻ കഴിയും അതൊരു വ്യത്യസ്തമായ കഥയാണ് അതിനാൽ ഇവ രണ്ടും ആശയക്കുഴപ്പത്തിലാക്കരുത് ഇപ്പോൾ ആന്തരികമായി സമ്മർദ്ദം ചെലുത്തിയ ഒരു ക്രാക്കിന്റെ പ്രശ്നം നമുക്ക് നോക്കാം നിങ്ങൾ ഇത് വൃത്തിയായി വരക്കേണ്ടതുണ്ട് യൂണിഫോം ടെൻഷൻ സിഗ്മയ്ക്ക് വിധേയമായ ഒരു ലളിതമായ സ്ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ക്രാക്കുകളൊന്നുമില്ല എനിക്ക് ഒരു ക്രാക്ക് ഇല്ലാത്തപ്പോൾ KI a പൂജ്യത്തിന് തുല്യമാണെന്ന് ഞാൻ ന്യായീകരിക്കുന്നു നോക്കൂ ഒരു പ്രെഷറൈസ്ഡ് ക്രാക്കിന്റെ കാര്യം ഞാൻ മനപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകം സൊല്യൂഷൻ അറിയാം ഗ്രീനിന്റെ ഫങ്ഷൻ അപ്പ്രോച്ചിനെക്കുറിച്ച് നമ്മൾ ഒരു ചർച്ച നടത്തി ഇന്റേണൽ പ്രഷർ ഉള്ളപ്പോൾ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ മൂല്യം എന്തായിരിക്കും എന്ന് നമ്മൾ നോക്കിയിരുന്നു സൂപ്പർപോസിഷന്റെ തത്വത്തിൽ ആളുകൾ എങ്ങനെയാണ് ഉപപ്രശ്നങ്ങൾ നിർമ്മിക്കുന്നതെന്ന ആശയം നേടുക എന്നതാണ് ഞാൻ ഇപ്പോൾ അതേ പ്രശ്നം സ്വീകരിച്ചതിന്റെ കാരണം അവിടെയാണ് വെല്ലുവിളി ഞാൻ ഒരു ക്രാക്ക് ഇല്ലാതെ ഒരു ഷീറ്റ് എടുത്തു ഇപ്പോൾ ഞാൻ പറയും മറ്റൊരു തരത്തിലുള്ള ലോഡിംഗിൽ എനിക്ക് സമാന പ്രശ്നത്തെ പ്രതിനിധീകരിക്കാനും കഴിയും എനിക്ക് ഒരു ക്രാക്ക് ഉണ്ട് പക്ഷേ മറ്റൊരു സെറ്റ് ലോഡിംഗ് ഉപയോഗിച്ച് ക്രാക്ക് അടച്ചിരിക്കുന്നു അതിനാൽ ഒരു ക്രാക്കുകൾ ഇല്ലാത്തതുപോലെ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ഉയർന്നുവരുന്നു ഞാൻ സിഗ്മ അല്ലെങ്കിൽ രണ്ട് സിഗ്മ അല്ലെങ്കിൽ മൂന്ന് സിഗ്മ ഏതു പ്രയോഗിക്കണം നിങ്ങൾക്ക് മുൻ അറിവ് ആവശ്യമാണ് ഏത് രീതിയിലായാലും ഇത് മാറാൻ പോകുന്നില്ല കാരണം ഇത് പരസ്പരം റദ്ദാക്കുകയും ക്രാക്ക് അടയ്ക്കുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വിവിധ പ്രശ്നങ്ങളുടെ ആകെത്തുകയായി വിഭജിക്കുന്നതിനുപകരം ഇങ്ങനെ ചെയ്യാം ഇവിടെയും ഞാൻ തിരിച്ചറിയുന്നു സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ പൂജ്യമാണ് കാരണം ക്രാക്ക് അടച്ചിരിക്കുന്നു ഞാൻ ഇത് പ്രോബ്ലം എ ആക്കി മാറ്റും ഇത് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ അറിയാവുന്ന ഉപ പ്രശ്നങ്ങളായി വിഭജിക്കാൻ ശ്രമിക്കും അതിനാൽ ഞാൻ ഇത് ഈ രൂപത്തിൽ മാറ്റിയെഴുതാൻ പോകുന്നു യൂണി ആക്സിയൽ ടെൻഷന് വിധേയമായ ഒരു ക്രാക്ക് ഉള്ള ഒരു പ്രശ്നമായി ഞാൻ ഇതിനെ വിഭജിച്ചു സ്ട്രെസ് സിഗ്മ മൂലം ക്രാക്ക് അടയ്ക്കുന്ന മറ്റൊരു പ്രശ്നം ഞാൻ എടുത്തു നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചു പ്രോബ്ലം എക്ക് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ പൂജ്യമാണ് പ്രോബ്ലം ബിക്ക് KI b എന്ന് സൂചിപ്പിക്കുന്നു അതിന്റെ സിഗ്മ റൂട്ട് പൈ എ യുടെ മൂല്യം നമുക്കറിയാം അതിനാൽ ഇത് നോക്കിയാൽ സി പ്രശ്നത്തിന്റെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും എനിക്ക് ലളിതമായി പറയാൻ കഴിയും കാരണം ഇത് പൂജ്യമാണ് KI സി മൈനസ് KI ബി അല്ലാതെ മറ്റൊന്നുമല്ല കാരണം KIബി പ്ലസ് KIസി പൂജ്യത്തിന് തുല്യമാണ് അതിനാൽ KIc എന്താണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും എനിക്ക് ഇവിടെ ഒരു നെഗറ്റീവ് ചിഹ്നം ലഭിച്ചു ഞാൻ ഇത് കംപ്രസ്സുചെയ്യുന്നു അതേസമയം ക്രാക്ക്ഡ് സർഫസിൽ ഫോഴ്സ് പ്രയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അത്തരം ഒരു സാഹചര്യം ലഭിക്കാൻ ഞാൻ ലോഡിന്റെ സൈൻ മാറ്റുന്നു സൈൻ ഈ രീതിയിൽ വിപരീതമാക്കുകയും സ്ട്രെസും പ്രഷറും ഇക്വറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ക്രാക്ക് ഫേസിന്റെ പ്രെഷറൈസ്ഡ് ലോഡിംഗിനായി KI പി റൂട്ട് പൈ a എന്ന് കിട്ടും സൂപ്പർപോസിഷന്റെ തത്ത്വം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾക്ക് കുറച്ച് അറിവു വേണം അതിനുശേഷം മാത്രമേ കൂട്ടലും കുറയ്ക്കലും നടത്താൻ കഴിയൂ ഇവിടെ നമ്മൾ കുറയ്ക്കൽ മനപൂർവ്വം ചെയ്തിട്ടില്ല കുറയ്ക്കലും ചെയ്യുന്ന മറ്റൊരു പ്രശ്നം നമ്മൾ ചെയ്യും ഇവിടെ ഉപപ്രശ്നങ്ങൾ എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ചുള്ള പരിശീലനം കൂടുതലായി നോക്കാം ഉപ പ്രശ്നങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടും അവിടെയാണ് ഫോക്കസ് കറക്ഷൻ ഫാക്ടറുകളെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ലാത്തതിനാൽ ഞാൻ ഇനിഫിനിറ്റ് ജ്യാമിതി ഏറ്റെടുത്തു ഏതെങ്കിലും ഫൈനൈറ്റ് ജ്യാമിതി എടുത്താൽ ഞാൻ ഒരു കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം ഇനിഫിനിറ്റ് ജ്യാമിതി എടുക്കുന്നതിലൂടെ ഞാൻ ഇത് ഒഴിവാക്കി ഇവ സ്വയം തൃപ്തിപ്പെടുത്തുന്നതുപോലെയാണ് കാരണം നിങ്ങൾ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു ഹാൻഡ്ബുക്കിൽ പോയി നിങ്ങളുടെ പ്രസക്തമായ പ്രശ്നത്തിന് ആവശ്യമായ മൂല്യങ്ങൾ അവിടെ നിന്ന് എടുക്കും എന്നാൽ ഒരു അക്കാദമിക് പരിതസ്ഥിതിയിൽ ആ മൂല്യങ്ങൾ എങ്ങനെ നേടാമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന്റെ പിന്നിലെ തത്വങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ നമുക്ക് റിവേറ്റഡ് ഹോളിലെ ഒരു ക്രാക്ക് നോക്കാം ഈ ദ്വാരത്തിൽ നിന്ന് എനിക്ക് ഒരു ക്രാക്ക് ഉണ്ടാകുന്നു എന്ന് കരുതുക എനിക്ക് ഒരു പിൻ പോലെയുള്ള ഒരു റിവറ്റ് ഉണ്ട് അത് ഒരു ദിശയിൽ ഇതുപോലുള്ള ഒരു ശക്തി പ്രയോഗിക്കും സ്ട്രെസ് സിഗ്മ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുഴുവൻ പ്ലേറ്റും വലിക്കാം ലോഡ് പി സിഗ്മ w ആയി നൽകിയിരിക്കുന്നു അതിനാൽ ഇത് ഒരു യൂണിറ്റ് നീളത്തിൽ ഉള്ള ലോഡാണ് നമ്മൾ ഒരു യൂണിറ്റ് തിക്നെസ്സ് പരിഗണിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ധാരണ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ ചെറിയ പ്രശ്നങ്ങളുടെ കൂട്ടിച്ചേർക്കലായി വിഭജിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് കാണുക സൂപ്പർപോസിഷനിൽ ഉപപ്രശ്നങ്ങൾ എങ്ങനെ എഴുതാം എന്നത് വെല്ലുവിളിയാണ് നിങ്ങൾ ഉപപ്രശ്നങ്ങൾ എഴുതുമ്പോൾ ഉറപ്പുവരുത്തുക അതിന്റെ ഒരു ഭാഗത്തെ എങ്കിലും കെ യുടെ സൊല്യൂഷൻ അറിയാം കെ യുടെ സൊല്യൂഷൻ നിങ്ങൾക്കറിയാത്ത ഒരു ഉപ പ്രശ്നം നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഉദ്ദേശ്യം പരാജയപ്പെടും അതിനാൽ മുഴുവൻ വെല്ലുവിളികളും ഉപപ്രശ്നങ്ങൾ എഴുതുന്നതിൽ മാത്രമാണ് ഉപ പ്രശ്നം എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ ഒരു ക്രാക്കിന്റെ പ്രശ്നം ഇതിലെ ഒരു പ്രശ്നമായി ഞാൻ എടുക്കുന്നു എനിക്ക് ഈ സ്ട്രെസ് ഉണ്ട് ഈ സ്ട്രസ് റദ്ദാക്കേണ്ടതുണ്ട് ക്രാക്ക് ഫേസിൽ എനിക്ക് ലോഡിംഗ് ഒന്നുമില്ല എനിക്ക് അറിയാവുന്ന പ്രശ്നം ഇരുവശത്തും ക്രാക്കിന്റെ സെന്റെറിൽ ഒരു ഫോഴ്സ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് എനിക്ക് ഇത് മറ്റൊരു പ്രശ്നവുമായി ചേർക്കാൻ കഴിയും ഈ രണ്ട് പ്രശ്നങ്ങളും നോക്കുമ്പോൾ ചിത്രം എ ൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രശ്നവുമായി ഇത് പൊരുത്തപ്പെടുത്തണമെങ്കിൽ ചോദ്യത്തിന് സമാനമായ മറ്റൊരു പ്രശ്നം ഞാൻ കുറയ്ക്കേണ്ടതുണ്ട് നോക്കൂ ചോദ്യത്തിൽ തന്നെ ക്രാക്ക് ഫേസിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡും ഡിസ്ട്രിബ്യുട്ടേഡ് ലോഡും ഉണ്ടായിരുന്നു അതിനാൽ അത് കുറയ്ക്കുന്നതിന് ബുദ്ധിപരമായി വലതുഭാഗത്ത് ഇടുന്നു സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എങ്ങനെ നേടാമെന്ന് നോക്കാം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളിൽ ചില വിദ്യാർത്ഥികൾ ഇത് കാണുമ്പോൾ അസ്വസ്ഥരാണ് ഇതിന് കുറച്ച് സമയമെടുക്കുമെന്ന് നിങ്ങൾക്കറിയാം അതിന്റെ പിന്നിലെ തന്ത്രമെന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കേണ്ടിവരുമെന്ന് നിങ്ങൾക്കറിയാം ഇത് ലളിതമല്ല എന്നാൽ ഇത് മനസിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലളിതമാക്കാൻ കഴിയും അതാണ് നിങ്ങൾ നോക്കേണ്ടതും വളരെ ഉപയോഗപ്രദവുമായ സമീപനം എ സാഹചര്യത്തിന് എനിക്ക് K I ഉണ്ട്അത് K Iബി പ്ലസ് K Iസി മൈനസ് K Iഡിക്ക് തുല്യമാണ് K Iഡി എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇതിന് സമാനമായി എടുക്കാം K Ib K Ic എന്താണെന്ന് എനിക്കറിയാം അതിൽ നിന്ന് K I a എന്താണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും അത് ചെയ്യുമ്പോൾ എന്റെ എക്സ്പ്രഷൻ ഇതുപോലെയാകും വൺ ഹാഫ് ഓഫ് സിഗ്മ റൂട്ട് പൈ എ പ്ലസ് സിഗ്മ w ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പൈ എ നിങ്ങളുടെ അസൈൻമെന്റ് ഷീറ്റിൽ എനിക്ക് ഒന്നോ രണ്ടോ പ്രശ്നങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക് സൂപ്പർപോസിഷൻ തത്വമനുസരിച്ച് ചെയ്യാൻ കഴിയും നിങ്ങൾ അത് പരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ മൂല്യനിർണ്ണയത്തിനുള്ള നിങ്ങളുടെ ഒരു രീതി ഇതാണ് എന്ന് നിങ്ങൾ മനസിലാക്കണം ആ വീക്ഷണകോണിൽ നിന്ന് മാത്രമേ നിങ്ങൾ അത് നോക്കാവു എംബഡെഡ് സർക്കുലർ ഫ്ലോ SIF ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എംബഡെഡ് ഫ്ലോയിലേക്ക് നമ്മൾ നീങ്ങും നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് കാണുക തിക്നെസ്സ് ക്രാക്കുകളിലൂടെ നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ എംബഡെഡ് ഫ്ലോ കാണും നിങ്ങൾ സാഹിത്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഗവേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോയി എംബഡെഡ് സർക്കുലർ ഫ്ലോ ആണ് അവർ ആദ്യം ഏറ്റെടുത്തത് സ്ട്രെസ് കോൺസൺട്രേഷൻ പ്രശ്നത്തിന്റെ കാര്യത്തിലും കാണുക ആളുകൾ ആദ്യം പരിഹരിച്ചത് സർക്കുലർ ദ്വാരമുള്ള പ്ലേറ്റായിരുന്നു ഇതുപോലുള്ള ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് മനസിലാക്കിയ ശേഷം അവർ ഒരു എലിപ്റ്റിക്കൽ ദ്വാരം ഉള്ള പ്ലേറ്റിനെ കുറിച്ച് മനസിലാക്കി സമാനമായ രീതിയിൽ ഈ സാഹചര്യത്തിലും ഇനിഫിനിറ്റ് ബോഡിയിലെ ഒരു സർക്കുലർ ഫ്ലോയുടെ പ്രശ്നം നമ്മൾ കാണുന്നു ഇവിടെ അരികുകൾ വേവ് ആയി കാണിക്കുന്നു ഇത് ഇനിഫിനിറ്റ് ഒബ്ജക്റ്റിലെ ഒരു ഫ്ലോ ആണെന്ന് സൂചിപ്പിക്കുന്നു 1946 ലാണ് ഇത് വികസിപ്പിച്ചത് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പ്രാരംഭ ഘട്ടങ്ങൾ വികസിപ്പിച്ചെടുത്തത് നിങ്ങൾക്കറിയാം വാസ്തവത്തിൽ 1946 ൽ സ്നെഡൺ സ്ട്രെസ് ഫീൽഡ് മാത്രമാണ് നൽകിയത് ഗണിതശാസ്ത്രപരമായി അത് പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന് സ്ട്രെസ് ഫീൽഡ് നൽകാൻ കഴിയും അക്കാലത്ത് K I യുടെ എക്സ്പ്രഷൻ ലഭ്യമല്ല ഈ ചിത്രത്തിനൊപ്പം ഞാൻ ഇവിടെ വച്ചിട്ടുണ്ടെങ്കിലും K I ഈക്വൽ റ്റു 2 പൈ സിഗ്മ റൂട്ട് പൈ എ സ്നെഡോണിന്റെ പേരിൽ ക്രെഡിറ്റ് ചെയ്തുവെങ്കിലും 1946 ൽ അദ്ദേഹം ഈ കൃതി റിപ്പോർട്ടുചെയ്തപ്പോൾ അദ്ദേഹം നൽകിയത് സമ്മർദ്ദമേഖല മാത്രമാണ് അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് 1946 ൽ സ്നെഡൺ എംബഡെഡ് സർക്കുലർ ക്രാക്കിന് കൃത്യമായ സൊല്യൂഷൻ നേടി ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ചുള്ള ചെറിയ ഉൾക്കാഴ്ച ആ സൊല്യൂഷനിൽ നിന്ന് നേടി എന്നിരുന്നാലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഫലങ്ങൾ LEFM കാഴ്ചപ്പാടിൽ നിന്ന് പുനപരിശോധിച്ചു കൂടാതെ നിങ്ങൾക്ക് KI ഈക്വൽ റ്റു 2 ബൈ പൈ സിഗ്മ റൂട്ട് പൈ എ ലഭിച്ചു അത് മറ്റൊരു രൂപത്തിൽ എഴുതിയിരിക്കുന്നു 64 സിഗ്മ റൂട്ട് പൈ a ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പ്രാരംഭ വികാസത്തിൽ എന്തെങ്കിലും ഫലം ലഭിക്കുമ്പോഴെല്ലാം ആളുകൾ അതിന്റെ പല വശങ്ങളിലും ചിന്തിച്ചിരുന്നു എന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും നിങ്ങൾ ഇവിടെ നോക്കുന്ന നിമിഷം എന്ത് സംഭവിക്കും സെന്റർ ക്രാക്ക്ഡ് മാതൃകയ്ക്കുള്ള SIF നെക്കാൾ ഇത് ചെറുതാണ് എംബഡെഡ് ഫ്ലോ ത്രൂ തിക്നെസ്സ് ക്രാക്ക് പോലെ അപകടകരമല്ല ഈ രീതിയിലാണ് അവർ വിശകലനം റിപ്പോർട്ട് ചെയ്തത് ഒരു സർക്കുലർ ഫ്ലോയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വളഞ്ഞ ക്രാക്ക് ഫ്രണ്ട് ഉണ്ട് സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകം 36 ശതമാനം കുറയ്ക്കുക എന്നതാണ് ക്രാക്ക് ഫ്രണ്ട് കർവെച്ചറിന്റെ ഫലം ഇത് അവർ പരാമർശിച്ചിരുന്നു ത്രൂ തിക്നെസ്സ് ക്രാക്കിൽ ക്രാക്ക് ഫ്രണ്ട് നേരായതും വിശകലനം ചെയ്യാൻ എളുപ്പവുമാണ് അവർ സർക്കുലർ ഫ്ലോ നോക്കിയപ്പോൾ ഭാഗ്യവശാൽ ഈ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ സർക്കുലർ ഫ്ലോയുടെ പരിധിക്കുള്ളിൽ കോൺസ്റ്റന്റ് ആയിരുന്നു അത് മാറുന്നില്ല ഒപ്പം അവർ വിശകലനം ചെയ്തപ്പോൾ ഇതുപോലുള്ള ഒരു നിഗമനത്തിലെത്തി മറ്റൊരു നിരീക്ഷണം ഇതാണ് സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകം 36 ശതമാനം കുറയുന്ന കാരണം ക്രാക്ക് ഫ്രണ്ട് കർവെച്ചർ സ്ട്രക്ച്ചറിനെ സ്റ്റിഫ് ആക്കും സ്ട്രെസ് കോൺസൺട്രേഷൻ പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആളുകൾ സർക്കുലർ ഹോളിൽ നിന്ന് എലിപ്റ്റിക്കൽ ഹോളിൽ പോയി സർക്കുലർ ഫ്ലോയിൽ നിന്ന് എലിപ്റ്റിക്കൽ ഫ്ലോയിലേക്ക് പോകുന്നതും ഇവിടെ കാണാം 1950 ൽ ഗ്രീനും സ്നെഡണും ഇത് ചെയ്തു തുടക്കത്തിൽ അവർ എംബഡെഡ് എലിപ്റ്റിക്കൽ ക്രാക്കിനായി ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് നേടി എംബഡെഡ് എലിപ്റ്റിക്കൽ ഫ്ലോക്കുള്ള SIF അവർ എന്ത് വഴി ഇത് നേടി അവർ ഇത് v ഈക്വൽ റ്റു വി നോട്ട് ഇന്റു 1 മൈനസ് x സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ സി സ്ക്വയർ ഹോൾ പവർ ഹാഫ് എലിപ്റ്റിക്കൽ ഫ്ലോയുടെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക എന്താണ് തികച്ചും വ്യത്യസ്തമായി നിങ്ങൾ കാണുന്നത് എല്ലാം കൂടി കാണുക നമ്മൾ തിക്നെസ്സ് ക്രാക്കിനെകുറിച്ച് ചർച്ചചെയ്യുമ്പോൾ 2a നെ എലിപ്സിന്റെ പ്രധാന ആക്സിസ് ആയി നിർവചിക്കുകയായിരുന്നു നിങ്ങൾ എംബഡെഡ് ഫ്ലോയിലേക്ക് വരുന്ന നിമിഷം നമ്മൾ സർഫേസ് ഫ്ലോയിലേക്ക് വന്നു അത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രധാന ആക്സിസ് 2 സി ആണ് മൈനർ ആക്സിസ് 2എ ആണ് ഇത് പ്രധാനമായും നാമകരണമാണ് കാരണം അത് ക്രാക്കിന്റെ നീളം ആണ് ക്രാക്കിന്റെ നീളം a ആയി കണക്കാക്കുന്നു തിക്നെസ്സ് ക്രാക്കിന്റെ നിർവചനത്തിൽ ക്രാക്ക് ദൈർഘ്യം ഒരു തരത്തിലാണ് എംബഡെഡ് ഫ്ലോയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സർഫേസ് ഫ്ലോയുടെ കാര്യത്തിൽ a കൂടുതൽ പ്രസക്തമാണ് അതിനാലാണ് പ്രസക്തമായ ഭാഗം a എന്ന് നൽകുന്നത് അതിനാൽ ആ നിരീക്ഷണം നടത്തി ഈ രേഖാചിത്രം വരക്കുക ഇത് സെമി മേജർ ആക്സിസ് സി സെമി മൈനർ ആക്സിസ് എ വി നോട്ട് ഉത്ഭവത്തിലെ ക്രാക്ക് മുഖങ്ങളുടെ വേർതിരിവാണ് തുടക്കത്തിൽ സ്നെഡൺ നേടിയത് ക്രാക്ക് ഓപ്പണിങ് ഡിസ്പ്ലേസ്മെന്റ് മാത്രമാണ് എലിപ്റ്റിക്കൽ ക്രാക്കിന്റെ പരിധിക്കു ചുറ്റുമുള്ള ഏത് സ്ഥലത്തെയും സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറിന് കൃത്യമായ ഒരു എക്സ്പ്രഷൻ നടത്താൻ 1962 ൽ ഇർവിൻ സ്ട്രെയിൻ എനർജി ആർഗ്യുമെന്റുകൾ ഉപയോഗിച്ചു നിങ്ങൾ സൊല്യൂഷൻ നോക്കുന്ന നിമിഷം നിങ്ങൾ ഈ സൊല്യൂഷൻ ലളിതമല്ല എന്ന് കണ്ടെത്തും സർക്കുലർ ഫ്ലോയിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ സ്ഥിരമായി തുടർന്നു മറുവശത്ത് ആദ്യ നിരീക്ഷണം ഇതാണ് എലിപ്റ്റിക്കൽ ക്രാക്കിന്റെ പരിധിക്കു ചുറ്റുമുള്ള ഏത് പോയിന്റിലെയും സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ അദ്ദേഹം നിർണ്ണയിച്ചു പാരാമെട്രിക് പ്രാതിനിധ്യം ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എക്സ്പ്രഷൻ ലഭിക്കും ഇവിടെ കാണുക ഡയഗ്രമിനായി എഡ്ജസ് നേരെയാണ് നൽകിയിരിക്കുന്നത് ഇപ്പോഴും ഇത് ഒരു ഇനിഫിനിറ്റ് ബോഡിയിലെ എലിപ്റ്റിക്കൽ ഫ്ലോ ആയി പരിഗണിക്കുക K Iയുടെ മൂല്യം സിഗ്മ റൂട്ട് പൈ a ആയി നൽകിയിരിക്കുന്നു അത് മാന്ത്രികമാണ് എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾ ഈ സിഗ്മ റൂട്ട് പൈ a കാണും ഡിവൈഡഡ് ബൈ I 2 എന്ന് നിങ്ങൾ കാണും അവിടെ I 2 ഒരു എലിപ്റ്റിക്കൽ ഇന്റഗ്രൽ ആണ് അത് എന്താണെന്ന് നമ്മൾ കാണും നിങ്ങൾക്ക് തീറ്റ യുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ ബൈ സി ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഹോൾ പവർ 1 ബൈ 4 പ്രാഥമികമായി വരുന്നത് ഒരു എലിപ്സിൽ ഒരു പോയിന്റ് എങ്ങനെ കണ്ടെത്താമെന്നതിൽ നിന്നാണ് അതും ഒരു ഡയഗ്രം ആയി നൽകിയിരിക്കുന്നു ആ ഡയഗ്രം ശ്രദ്ധാപൂർവ്വം കാണുക എനിക്ക് ഒരു എലിപ്സ് ഉണ്ട് പ്രധാന ആക്സിസ് ഉള്ള ഒരു വൃത്തം ഞാൻ വരച്ചു ചെറിയ ആക്സിസ് ഉള്ള ഒരു വൃത്തവും ഞാൻ വരച്ചിട്ടുണ്ട് നിങ്ങളുടെ സൌകര്യത്തിനായി എനിക്ക് ഈ ചിത്രം വലുതാക്കാൻ കഴിഞ്ഞേക്കും എലിപ്സിൽ ഒരു പോയിന്റ് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഇതിലൂടെ ഞാൻ ഒരു നോർമൽ വരയ്ക്കുന്നു ഇത് ഈ ഘട്ടത്തിൽ എലിപ്സിനെയും വൃത്തത്തിന്റെ പരിധിയെയും ഇവിടേ മുറിക്കുന്നു ഞാൻ ഈ പോയിന്റ് സെന്ററുമായി ജോയിൻ ചെയ്യുമ്പോൾ ഇതാണ് ആംഗിൾ തീറ്റ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ ഒരു ആംഗിൾ തീറ്റ എടുക്കുമ്പോൾഅത് ഇവിടെ സർക്കിളിൽ തൊടും ഞാൻ ഒരു നോർമൽ ആ x ആക്സിസിലേക്ക് വരക്കുമ്പോൾ അത് ഈ പോയിന്റ് കട്ട് ചെയ്യും സ്ഥാനം സി കോസ് തീറ്റ എ സൈൻ തീറ്റ ഇത് എളുപ്പത്തിൽ നിർണ്ണയിക്കാനാകും അതിനാൽ ഇത് ഒരു പാരാമെട്രിക് പ്രാതിനിധ്യമാണ് K I യുടെ മൂല്യം എന്തുതന്നെയായാലും തീറ്റ ഉൾപ്പെടുന്ന ഒരു എക്സ്പ്രഷൻ ആയി നമ്മൾ അതിനെ കണ്ടു ഇത് എലിപ്സിൽ പച്ചയായി കാണിച്ചിരിക്കുന്ന പോയിന്റുമായി ഇത് യോജിക്കുന്നു അതിനാൽ നിങ്ങൾ തീറ്റ മാറ്റുമ്പോൾ ആ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് വിവിധ പോയിന്റുകളിൽ നിന്നുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ മൂല്യം എന്താണെന്ന് ലഭിക്കും തന്നിരിക്കുന്ന തീറ്റയുടെ പോയിന്റ് എങ്ങനെ കണ്ടെത്താം എന്നത് ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു വാസ്തവത്തിൽ നിങ്ങൾ തിരികെ പോയി ഒരു എലിപ്സ് വരയ്ക്കുന്നതിനുള്ള നിങ്ങളുടെ വിവിധ രീതികൾ നോക്കുകയാണെങ്കിൽ അവർ ഇത് പോലെ ചെയ്യും നിങ്ങൾക്ക് ഒരു സർക്കിൾ എടുത്ത് ഒരു എലിപ്സ് ഉണ്ടാക്കാൻ അതിനെ കംപ്രസ് ചെയ്യാം നിങ്ങൾ ഈ ദൂരം നോക്കുകയാണെങ്കിൽ ഈ ദൂരമാണ് മേജർ ആക്സിസ് ചെറിയ ദൂരം മൈനർ ആക്സിസ് ആണ് അതിനാൽ ഏത് വെർട്ടിക്കൽ വരയ്ക്കും വലുതും ചെറുതുമായ ആക്സിസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരേ അനുപാതം നിലനിർത്തുകയും പോയിന്റുകൾ ഇടുകയും ചെയ്യുന്നു എലിപ്സിൽ കിടക്കുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കും ആ അറിവിൽ നിന്ന് മാത്രം ഇത്തരത്തിലുള്ള നിരീക്ഷണം വരുന്നു കൂടാതെ എലിപ്റ്റിക്കൽ ഇന്റഗ്രലിനായി നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷനുമുണ്ട് I 2 ഈക്വൽ റ്റു ഇന്റഗ്രൽ 0 മുതൽ പൈ ബൈ 2വരെ ആയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ നിങ്ങൾ വിലയിരുത്തണം ഇത് 1 മൈനസ് സി സ്ക്വയേർഡ് മൈനസ് എ സ്ക്വയർ ബൈ സി സ്ക്വയേർഡ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ പവർ ഹാഫ് ഇന്റു ഡി തീറ്റ ഈ എലിപ്റ്റിക്കൽ ഇന്റഗ്രൽ മൂല്യങ്ങൾ നൽകാൻ നിങ്ങൾക്ക് പട്ടികകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ആളുകൾ ഒരു സീരീസ് സൊല്യൂഷനും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ശ്രേണിയിലെ നിരവധി പദങ്ങൾ എടുത്ത് വിലയിരുത്തുക നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം നിങ്ങൾക്ക് തീറ്റ എന്ന സ്ഥാനം ഉള്ളപ്പോൾ എലിപ്സിലെ പോയിന്റ് എങ്ങനെ കണ്ടെത്താമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യ നിരീക്ഷണം എലിപ്റ്റിക്കൽ ഫ്രണ്ടിലെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ഓരോ പോയിന്റിലും വ്യത്യാസപ്പെടുന്നു എന്നതാണ് ഇത് എങ്ങനെ വ്യത്യാസപ്പെടുന്നു നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞതും കൂടിയതും ഉണ്ട് നമുക്ക് താൽപ്പര്യമുള്ളത് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ പരമാവധി എവിടെയാണ് എന്നാണ് കാരണം ക്രാക്ക് ഏത് രീതിയിലാണ് വളരുന്നതെന്ന് അത് തീരുമാനിക്കും നിങ്ങൾ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ പ്രധാന ആക്സിസിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ഏറ്റവും കുറഞ്ഞതാണെന്ന് നിങ്ങൾ കണ്ടെത്തും സ്ട്രെസ് ഇന്റെൻസിറ്റിയുടെ ഏറ്റവും കുറഞ്ഞ മൂല്യം സിഗ്മ റൂട്ട് പൈ എ ഡിവൈഡഡ് ബൈ I2 ഇന്റു റൂട്ട് ഓഫ് എ ബൈ സി പരമാവധി മൂല്യം മൈനർ ആക്സിസിൽ സംഭവിക്കുന്നു അതിനാൽ K I മാക്സ് സിഗ്മ റൂട്ട് പൈ ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ I 2 ആണ് ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് അറിവുള്ളതിനാൽ ലോഡുകൾ വർദ്ധിക്കുമ്പോൾ ഒരു എലിപ്റ്റിക്കൽ ഫ്ളോക്ക് എന്ത് സംഭവിക്കും ചില ലോഡുകളിൽ അത് പ്രചരിപ്പിക്കേണ്ടതുണ്ട് എലിപ്റ്റിക്കൽ ഫ്ലോയ്ക്ക് എന്ത് സംഭവിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ട് മേജർ ആക്സിസിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ഏറ്റവും കുറഞ്ഞത് ആണ് ഇത് വർദ്ധിക്കുന്നു ഇത് മൈനർ ആക്സിസിൽ പരമാവധി എത്തുന്നു തുടർന്ന് മിനിമം മൂല്യത്തിലേക്ക് മടങ്ങുന്നു എലിപ്റ്റിക്കൽ ഫ്ലോയുടെ ബൌണ്ടറിയിൽ നടക്കുന്ന കഥയാണിത് ലോഡ് വർദ്ധിക്കുമ്പോൾ എലിപ്റ്റിക്കൽ ഫ്ലോ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും മൈനർ ആക്സിസിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ പരമാവധി അത് മാത്രമേ മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ അതിനാൽ ഒരു എലിപ്റ്റിക്കൽ ഫ്ലോ സർക്കുലർ ഫ്ലോ ആകാൻ ശ്രമിക്കും അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് എംബഡെഡ് എലിപ്റ്റിക്കൽ ക്രാക്ക് ഒരു സർക്കുലർ ക്രാക്ക് ആയി വളരും അതിനാൽ തീർച്ചയായും ഇത് നിങ്ങളുടെ അടിസ്ഥാന ധാരണയിലേക്ക് ചേർക്കുക അതാണ് ഞങ്ങളുടെ അക്കാദമിക് ചർച്ചകളുടെ ഉദ്ദേശം ഇർവിൻ നേടിയ സൊല്യൂഷൻ എന്തുതന്നെയായാലും സൊല്യൂഷൻ വളരെ പൊതുവായതാണെന്ന് ഇതിനെ വിളിക്കുന്നു ഒരു സർക്കുലർ ക്രാക്കിന് എലിപ്റ്റിക്കൽ ഇന്റഗ്രൽ I 2 പൈ 2 ആയി മാറുന്നു ഇത് ഒരു ചില്ലിക്കാശിന്റെ ആകൃതിയിലുള്ള ക്രാക്കിനുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ആയി കുറയ്ക്കുന്നു ഇതെല്ലാം നമ്മൾ ചെയ്തുവെന്ന് കാണുക നമുക്ക് ഒരു പൊതു സൊല്യൂഷൻ ലഭിക്കുമ്പോഴെല്ലാം നമ്മൾ അത് എല്ലായ്പ്പോഴും പ്രത്യേക കേസുകളിലേക്ക് കൊണ്ടുപോകുകയും പ്രത്യേക മൂല്യം ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു നമ്മുടെ പൊതുവായ സൊല്യൂഷൻ സമഗ്രമാണെന്നും നമ്മൾ ശരിയായ ദിശയിലാണെന്നും സ്വയം ബോധ്യപ്പെടുത്തുക അതാണ് നിങ്ങൾ നോക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഒരു സർക്കുലർ ക്രാക്ക് കണ്ടു ഇത് ഒരു നേരായ ക്രാക്ക് ആയി മാറുന്ന ഒരു സാഹചര്യവും എനിക്കുണ്ട് എ സി യേക്കാൾ വളരെ കുറവാണെങ്കിൽ I 21 ആയി മാറുന്നു കൂടാതെ ഇത് 2 എ നീളമുള്ള ടു ഡയമെൻഷനൽ ക്രാക്കിനുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ആയി കുറയുന്നു നിങ്ങൾക്കറിയാമോ ആളുകൾ ഇർവിൻ നേടിയ ഫലങ്ങളുടെ പ്രയോഗക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു 1979 ൽ ടഡയും പാരീസും ഇത് ചെയ്തു അതിനാൽ നോൺ എലിപ്റ്റിക്കൽ ആകൃതിയിലുള്ള ഇന്റേണൽ ഫ്ലോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞു എലിപ്റ്റിക്കൽ അല്ലാത്ത എംബഡെഡ് ഫ്ലോകളിലേക്കുള്ള വിപുലീകരണം ഇതാണ് അവർ ചെയ്തത് നമ്മൾ ഡയഗ്രാമിലേക്ക് മടങ്ങണം തീറ്റയുടെ ഒരു നിശ്ചിത മൂല്യത്തിനായി എലിപ്സിലെ പോയിന്റ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ടഡയും പാരീസും ഈ വഴി ശ്രദ്ധിച്ചു ആ പോയിന്റിൽ നിങ്ങൾ ഒരു ടാൻജെന്റ് വരയ്ക്കുക ഈ പോയിന്റിൽ ഒരു ടാൻജെന്റ് വരച്ച് അവിടെ നിന്ന് ഒരു നോർമൽ ഡ്രോപ്പ് ചെയ്യുക ഈ ടാൻജെന്റിന് ലംബമായി ഒരു ലൈൻ എനിക്കുണ്ട് നീളം l അളക്കുക അവർ ശ്രദ്ധിച്ചത് ഇതാണ് ഇത് a ഇന്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് a ബൈ c ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഹോൾ പവർ ഹാഫ് ആണ് ഇത് വളരെ രസകരമായ ഒരു നിരീക്ഷണമാണ് നിങ്ങൾക്കറിയാമോ ആളുകൾക്ക് സൊല്യൂഷൻ ലഭിച്ചുകഴിഞ്ഞാൽ അവർ അത് ഉപേക്ഷിക്കുന്നില്ല നിങ്ങൾക്ക് അതിൽ നിന്ന് എത്രമാത്രം എക്സ്ട്രാക്റ്റുചെയ്യാനാകുമെന്ന് കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ആളുകൾ എങ്ങനെ പാടുപെടുകയായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ പ്രായോഗിക സൊല്യൂഷൻ പ്രായോഗിക സമീപനങ്ങൾ എന്നിവ ലഭ്യമായ ഏതൊരു അറിവും ഉപയോഗിച്ച് കണ്ടെത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനാൽ ഇത് വൃത്തിയായി വരക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എലിപ്സ് വരച്ചു എന്നിട്ട് ഈ ടാൻജെന്റും നോർമലും ഇടുക നിങ്ങൾ അധികം സമയം ചെലവഴിക്കേണ്ടതില്ല മറ്റ് വിശദാംശങ്ങൾ എഴുതുക ഐ ഈക്വൽ റ്റു എഴുതുക സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ സിഗ്മ റൂട്ട് ഓഫ് പൈ l ബൈ I 2 എഴുതുക ഐ അറിയാമെങ്കിൽ KIഎന്താണെന്ന് നിങ്ങൾക്ക് കണക്കാക്കാം ഇത് അവർ ഇതുപോലുള്ള മറ്റ് രൂപങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു വൃത്തിയായി ഒരു സ്കെച്ച് നിർമ്മിക്കാൻ സമയമെടുക്കുക അതിനാൽ നിങ്ങൾ ഈ നീളം l അളക്കണം എനിക്ക് ഇതുപോലുള്ള മറ്റൊരു ആകൃതി ഉണ്ടെങ്കിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾ അളക്കണം ഇത് നോർമൽ വരയ്ക്കുക തുടർന്ന് നീളം l കണ്ടെത്തുക നിങ്ങൾക്ക് സുഗമമായി വ്യത്യസ്തമായ അവസ്ഥയുണ്ടെങ്കിൽ ടാൻജെന്റ് വരയ്ക്കുക നോർമൽ വരയ്ക്കുക എന്നിട്ട് l ന്റെ മൂല്യം കണ്ടെത്തുക പിന്നെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ലളിതമാണ് KI ഈക്വൽ റ്റു സിഗ്മ റൂട്ട് ഓഫ് പൈ l ബൈ I 2 ഇത് വളരെ ലളിതമാണ് എലിപ്റ്റിക്കൽ ഫ്ലോയിൽ നിന്ന് നിങ്ങൾക്ക് എലിപ്റ്റിക്കൽ അല്ലാത്ത ആകൃതികളിലേക്ക് പോകാം അത് വിപുലീകരണത്തിന്റെ ഒരു വശമാണ് എലിപ്റ്റിക്കൽ ഫ്ലോയിൽ നിന്ന് നിങ്ങൾക്ക് സർക്കിളിലേക്കും പിന്നീട് തിക്നെസ്സ് ക്രാക്കിലേക്ക് വരാനും കഴിയും നമ്മൾ ചെയ്തതെന്തെന്നാൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത എക്സ്പ്രഷൻ എല്ലാം നമ്മുടെ അറിവിന്റെ വളർച്ചയുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തി ഈ കർക്കശവും വിശാലവുമായ പ്രയോഗക്ഷമത ഉപയോഗിച്ച് നമ്മൾ ഫലങ്ങൾ സർഫേസ് ക്രാക്കുകളിലേക്ക് നീട്ടുന്നില്ലെങ്കിൽ ഇർവിന്റെ ഫലം പരിമിതമായ പ്രായോഗിക യൂട്ടിലിറ്റി മാത്രമായി പോകും സർഫേസ് ക്രാക്കുകൾക്കുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എങ്കിലും അവ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും സങ്കീർണ്ണവുമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ അതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ പശ്ചാത്തലം ഉണ്ടായിരിക്കണം ഈ സൊല്യൂഷൻ എങ്ങനെ ഉചിതമായി പരിഷ്കരിക്കാമെന്ന് നമ്മൾ കാണും സർഫേസ് ക്രാക്കിന്റെ മോഡലിംഗ് സർഫേസ് ക്രാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഉന്നയിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ് സർഫേസ് ക്രാക്കുകൾ എങ്ങനെ മാതൃകയാക്കാം എനിക്ക് ഇവിടെ ഒരു നല്ല ചിത്രം ഉണ്ട് ഞാൻ അതിനെ വലുതാക്കും നിങ്ങൾക്ക് ഒരു മാതൃകയുണ്ട് കൂടാതെ സർഫേസ് ക്രാക്കുകൾ ഉണ്ട് ഈ സർഫേസ് ക്രാക്ക് രൂപം എടുത്ത് ഒരു എലിപ്സിൽ ഇടുന്നു ചിത്രത്തിന്റെ കടപ്പാട് ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ഈ ഒബ്ജക്റ്റിലുള്ള സർഫേസ് ക്രാക്ക് സെമി എലിപ്റ്റിക്കൽ ക്രാക്ക് ആയി മാതൃകയാക്കാം ആ മോഡലിംഗ് ന്യായമായും നല്ലതാണ് കാരണം നമുക്ക് അത് മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ നിങ്ങൾ അത് മനസ്സിലാക്കണം സർഫേസ് ക്രാക്കിന്റെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സർഫേസ് ക്രാക്കിനായി ഞാൻ ഇത് പ്രയോഗിക്കുന്നതിന് മുമ്പ് സർഫേസ് ക്രാക്കുകൾക്ക് ന്യായമായ ഏകദേശ രൂപം ഞാൻ മാതൃകയാക്കണം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സർഫേസ് ക്രാക്ക് മാതൃകയുടെ ഒരു ഫേസിൽ നിന്ന് ആരംഭിക്കുന്നു പക്ഷേ തിക്നെസ്സ് ക്രാക്ക് പോലെ മറ്റേ ഫേസിലെക്ക് പോകില്ല ഫ്രാക്ചർ മെക്കാനിക്സിന്റെ സാഹിത്യത്തിൽ സർഫേസ് ക്രാക്കുകൾ സാധാരണയായി സെമി എലിപ്സ് ആയി രൂപപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഡബിൾ എഡ്ജ് ക്രാക്കിനുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ നമ്മൾ പരിശോധിച്ചു നമ്മൾ കുറച്ച് ക്ലാസുകൾ മുൻപ് ചെയ്ത ഒരു സെന്റർ ക്രാക്കും ഡബിൾ എഡ്ജ് ക്രാക്കും അടങ്ങിയ പരീക്ഷണത്തിനായുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ഗണിതശാസ്ത്രപരമായി നമ്മൾ നേടി ഡബിൾ എഡ്ജ് ക്രാക്ക് മാത്രമാണ് പരാജയപ്പെടുന്നതെന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തി കാരണം സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ സെന്റർ ക്രാക്കിനേക്കാൾ കൂടുതലാണ് അതിനാൽ സാമാന്യബുദ്ധി പരാജയപ്പെടുന്നു ഡബിൾ എഡ്ജ് ക്രാക്ക് നീളത്തിന്റെ ആകെത്തുക പതിനേഴ് മില്ലിമീറ്റർ മാത്രമാണ് അതേസമയം സെന്റർ ക്രാക്കിന്റെ നീളം 18 മില്ലിമീറ്ററാണ് ഡബിൾ എഡ്ജ് ക്രാക്ക് ചെറുതാണെങ്കിലും ഇത് ഫ്രാക്ച്ചറുണ്ടാക്കി പിന്നീട് നമ്മൾ എംബഡെഡ് ഫ്ലോകളിലേക്ക് നീങ്ങി ഒരു സർക്കുലർ ഫ്ലോയുടെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ നമ്മൾ പരിശോധിച്ചു തുടർന്ന് എലിപ്റ്റിക്കൽ ഫ്ലോ അപ്പോൾ നമ്മൾ എലിപ്റ്റിക്കൽ ഫ്ലോയിൽ നിന്ന് സർഫേസ് ക്രാക്കുകളിലേക്ക് പോയി സർഫേസ് ക്രാക്കുകൾ സെമി എലിപ്റ്റിക്കൽ ഫ്ലോകളായി രൂപപ്പെടുത്താമെന്നും നമ്മൾ കാണിച്ചു